സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻ എല്ലിന്റെ മൂക്ക് കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ടിയിൽ നിന്നുള്ള പ്രൊഫസർ രവിചന്ദ്രനാണ് ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് നൽകുന്നു നമ്മൾ ആദ്യ ആഴ്ചയിലാണ് നിങ്ങൾ ഇപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് ഈ മൊഡ്യൂളിൽ ഞാൻ മനുഷ്യന്റെ ധാരണകളിലും എങ്ങനെ ചില പെർസെപ്ഷനൽ തെറ്റുകൾ വരുത്തുന്നു എന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും മനുഷ്യരെ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് ഈ വീക്ഷണം മനസ്സിൽ വച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലും ആളുകളെ മനസ്സിലാക്കുന്നതിലും നമ്മൾ തെറ്റുകൾ വരുത്തുന്നു ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തേതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ചില ദ്രുത ഹൈലൈറ്റുകൾ ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ സോഫ്റ്റ് സ്കിൽസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആളുകളുടെ കഴിവുകളുടെ ഒരു പ്രധാന വശം എന്ന നിലയിൽ വാസ്തവത്തിൽ അവരെ പര്യായമായാണ് പരിഗണിക്കുന്നത് സോഫ്റ്റ് സ്കിൽസ് ആളുകളുടെ കഴിവുകളായി കണക്കാക്കപ്പെടുന്നു ഇതിനർത്ഥം ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധവും ആശയവിനിമയവും നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിനും പരാജയത്തിനും കാരണമാകുന്നു എന്നാണ് നിങ്ങളുടെ സന്തോഷത്തിന്റെ എൺപത് ശതമാനവും നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ജീവിതപങ്കാളിയോ മേലധികാരിയോ ആണെന്നും ഞാൻ പരാമർശിച്ചു നിങ്ങൾ പരമാവധി സമയം ചെലവഴിക്കുന്ന ആർക്കൊപ്പമാണ് ആ വ്യക്തി അത് ആർക്കും ആകാം പക്ഷേ അത് ഈ ഏക വ്യക്തിയാണ് നിങ്ങൾ ആർക്കൊപ്പമാണ് പരമാവധി സമയം ചെലവഴിക്കുന്നത് എന്നത് നിങ്ങളുടെ സന്തോഷത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ പോകുന്നു അതിനാൽ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസിൽ പ്രവർത്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നത് നേടാൻ നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുകയും വേണം പക്ഷേഃ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം കാരണം നിങ്ങളിൽ ഭൂരിഭാഗവും ജീവിതം ഉറപ്പില്ലാത്ത രീതിയിൽ ജീവിക്കുന്നു വരുന്നതു പോലെ കാര്യങ്ങൾ എടുക്കുക ഒരു ഒഴുക്കിനൊപ്പം പോകുക ഓട്ടോ പൈലറ്റ് മോഡ് എന്നാൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നില്ല വാസ്തവത്തിൽ നിങ്ങളുടെ ദൌത്യ പ്രസ്താവന നടത്തുന്നതിൻറെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഉദ്ദേശ്യബോധവും കാഴ്ചപ്പാടും ഉണ്ടായിരിക്കണം വ്യക്തമായി ലക്ഷ്യബോധമുള്ളവരായിരിക്കാൻ നിങ്ങൾ മനസ്സിൽ അവസാനത്തോടെ ആരംഭിക്കേണ്ടതുണ്ട് സ്റ്റീവൻ കോവിയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിളിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു ശീലം ഞാൻ ഉദ്ധരിച്ചു നിങ്ങൾ മനസ്സിൽ അവസാനത്തോടെ ആരംഭിക്കണം ഓരോ ദിവസവും നിങ്ങൾ ഫലം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ജോലി ആരംഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഈ ജോലി ചെയ്താൽ എന്ത് സംഭവിക്കും ഫലം എന്തായിരിക്കും നിങ്ങളുടെ ജീവിതത്തിനും വ്യക്തിത്വ വികസനത്തിനും ഒരു മൂല്യവും നൽകാത്ത ഒരു ജോലിയും ചെയ്യുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിനോ മൂല്യത്തിനോ എന്തെങ്കിലും ചേർക്കാൻ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ആ ജോലി ചെയ്യരുത് ഇപ്പോൾ അടുത്ത ചോദ്യം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രാരംഭ വിലാസമായി ഞങ്ങൾ നൽകിയ സ്റ്റീവ് ജോബിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് ശ്രദ്ധിച്ചോ ഇപ്പോൾ ഞാൻ പേരുകൾ ഒഴിവാക്കാൻ പോകുന്നു ഞാൻ പുസ്തകങ്ങൾ നിർദ്ദേശിക്കാൻ പോകുന്നു ഞാൻ പരാമർശിച്ച മറ്റൊരു പുസ്തകം സ്റ്റീവൻ കോവിയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ ആയിരുന്നു ഞാൻ ഒരു ശീലത്തെക്കുറിച്ച് സംസാരിച്ചു ഒരു ശീലത്തെക്കുറിച്ച് കൂടി സംസാരിക്കാം എന്നാൽ തുല്യ പ്രാധാന്യമുള്ള മറ്റ് ശീലങ്ങൾ വായിക്കാൻ ഞാൻ നിങ്ങളെ വിടുന്നു ആ ശീലങ്ങളെക്കുറിച്ച് ഞാൻ സ്പർശിക്കാം ഞാൻ അത് ചെയ്തേക്കില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് അധികമായി വായിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവ യഥാർത്ഥത്തിൽ കോഴ്സിന് ആവശ്യമില്ല എന്നാൽ ഞാൻ കോഴ്സുമായി മുന്നോട്ട് പോകുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് മികച്ച വീക്ഷണം ലഭിക്കുന്നതിന് നിങ്ങൾ ഇത് വായിക്കുന്നത് നന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ഗൂഗിൾ ചെയ്യുക യൂട്യൂബിലേക്ക് പോകുക സ്റ്റീവ് ജോബിന്റെ പ്രാരംഭ വിലാസം കാണുക നിങ്ങളെ വ്യക്തമായ കാഴ്ചപ്പാടിൽ നിലനിർത്തുന്ന വളരെ പ്രചോദനാത്മകമായ ഒരു പ്രസംഗമാണിത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശ്യബോധം ഉണ്ടായിരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് വ്യക്തമായിരിക്കണം ഇപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ കീഴടങ്ങുന്ന പെർസെപ്ച്വൽ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നു നാം കാര്യങ്ങൾ കാണുന്ന രീതി നമ്മുടെ അഞ്ച് അവയവങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്ന രീതി എന്ന അർത്ഥത്തിൽ പ്രത്യേകിച്ചും നാം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കണ്ണിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുകയും തുടർന്ന് നമ്മുടെ മനസ്സിൽ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്യുന്ന രീതി ഏകപക്ഷീയമായി ചില കാര്യങ്ങൾ നോക്കുന്ന രീതി മറ്റ് കാര്യങ്ങൾ നോക്കാൻ നമുക്ക് കഴിയാത്ത രീതി അത് നമ്മുടെ ധാരണയെ നിർണ്ണയിക്കുന്നു അതായത് നമ്മൾ കാര്യങ്ങളെ നോക്കേണ്ട രീതിയിലല്ല നോക്കുന്നത് എങ്ങനെ ഞാൻ നിങ്ങൾക്ക് ചില വസ്തുക്കൾ കാണിക്കാൻ പോകുകയാണെന്ന് ഞാൻ വിശദീകരിക്കട്ടെ നിങ്ങൾ അവരെ കാണുകയും അപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും ഇപ്പോൾ പെർസെപ്ച്വൽ വ്യത്യാസങ്ങൾ നോക്കൂ ഈ കപ്പുകളെ നമ്മൾ എങ്ങനെ വിളിക്കും ഇത് നിറഞ്ഞിരിക്കുന്നു വ്യക്തമായും ഇത് ശൂന്യമാണ് എന്നാൽ നിങ്ങൾ ഇത് എങ്ങനെ വിളിക്കും ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് വിളിക്കുന്നത് അത് പകുതി നിറഞ്ഞതാണോ അതോ പകുതി ശൂന്യമാണോ ഇപ്പോൾ മനശ്ശാസ്ത്രജ്ഞർ പറയുന്നത് നിങ്ങൾ ഈ കപ്പ് നോക്കുകയാണെങ്കിൽ അത് പകുതി നിറഞ്ഞതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ശുഭാപ്തിവിശ്വാസിയാണ് പകുതി ശൂന്യമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരു അശുഭാപ്തിവിശ ്വാസിയാണ് അതിനാൽ ജീവിതത്തിന്റെ ശൂന്യമായ ഭാഗം ജീവിതത്തിന്റെ നിഷേധാത്മക വശം എല്ലായ്പ്പോഴും കാണുന്ന ഒരാളാണ് അശുഭാപ്തിവിശ്വാസി അതേസമയം ജീവിതത്തെ മുഴുവനായി കാണുന്ന ഒരാളാണ് ശുഭാപ്തിവിശ്വാസം ശുഭാപ്തിവിശ്വാസികൾ എല്ലാത്തിലും നല്ലത് കാണുന്നു അശുഭാപ്തിവിശ്വാസികൾ എല്ലാത്തിലും ചീത്ത കാണുന്നു ഇപ്പോൾ ഞാൻ ശുഭാപ്തിവിശ്വാസിയാണോ അതോ അശുഭാപ്തിവിശ്വാസിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഇപ്പോൾ നിങ്ങൾ ഒരു ശുഭാപ്തിവിശ്വാസിയാണോ അതോ അശുഭാപ്തിവിശ്വാസിയാണോ എന്ന് തിരിച്ചറിയുന്ന പരീക്ഷണങ്ങളാണിവ പ്രകൃത്യാ നമ്മിൽ ചിലർ ജീവിതത്തിലെ നിഷേധാത്മകമായ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നു നമ്മിൽ ചിലർ യഥാർത്ഥത്തിൽ എന്താണ് പോസിറ്റീവ് എന്താണ് ഗ്രീൻ എന്താണ് റോസി എന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് നമ്മൾ മുള്ളുകളിലേക്ക് നോക്കുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നിങ്ങൾ നിർബന്ധിക്കണമെന്ന് ഇതിനർത്ഥമില്ല എന്നാൽ അത് സ്വാധീനം ചെലുത്തുന്നു നിങ്ങൾ മിക്കപ്പോഴും നെഗറ്റീവ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് വളരെ ശുഭാപ്തിവിശ്വാസമുള്ള വ്യക്തിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ ചിലപ്പോൾ ആ വ്യക്തി വളരെ ശുഭാപ്തിവിശ്വാസിയാണെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് അവൻ അല്ലെങ്കിൽ അവൾ കാണുന്നതിൽ പരാജയപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ അവൻ യഥാർത്ഥത്തിൽ ചില പരിമിതികൾ കാണേണ്ടതുണ്ട് ഇപ്പോൾ ജീവിത ഓട്ടത്തിന്റെ കാര്യമോ ശുഭാപ്തിവിശ്വാസിയും അശുഭാപ്തിവിശ്വാസിയും ആരംഭിച്ച ജീവിത യാത്രയുടെ കാര്യമോ ഇപ്പോൾ ശുഭാപ്തിവിശ്വാസിയും അശുഭാപ്തിവിശ്വാസിയും ഒരേ സമയം ജീവിതത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് പറയപ്പെടുന്നു നിങ്ങൾ ഒരു മത്സരത്തിലാണെങ്കിൽപ്പോലും ഇരുവരും ഒരേ സമയം അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കും അപ്പോൾ എന്താണ് വ്യത്യാസം ശുഭാപ്തിവിശ്വാസിയായവൻ യാത്ര ആസ്വദിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശുഭാപ്തിവിശ്വാസിയായവൻ ജീവിതം ആസ്വദിക്കുമായിരുന്നു ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനുള്ള മുഴുവൻ പ്രക്രിയയും ശുഭാപ്തിവിശ്വാസികൾ ആസ്വദിക്കുമായിരുന്നു അതേസമയം ആ യാത്ര ഏറ്റെടുക്കേണ്ടിവരുമെന്ന് എല്ലായ്പ്പോഴും ശപിക്കുന്ന അശുഭാപ്തിവിശ്വാസി തന്നെ ആ അവസ്ഥയിൽ എത്തിച്ചതിന് എല്ലായ്പ്പോഴും ആളുകളെ കുറ്റപ്പെടുത്തുന്നു എല്ലായ്പ്പോഴും ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നു അവൻ നടക്കുകയും കഠിനമായി അധ്വാനിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നു എന്നിട്ടും അതിൽ എത്തുന്നു അതിനാൽ ഒന്നാമതായി നിങ്ങളുടെ കാഴ്ചപ്പാടും മനോഭാവവും മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം ആസ്വദിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട് നിറയെ കാര്യങ്ങൾ നോക്കാൻ സ്വയം നിർബന്ധിച്ചുകൊണ്ട് ശൂന്യമായ കാര്യങ്ങൾ നോക്കുന്നതിനുപകരം ഇപ്പോൾ ഞാൻ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്ന അതേ കാര്യമാണ് രണ്ട് വ്യത്യസ്ത ആളുകൾ രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ കാണുന്നു അതായത് ഒരേ വാദത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടാകാം ഒരേ വ്യക്തിയെ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള രണ്ട് വ്യത്യസ്ത ആളുകൾക്ക് കാണാൻ കഴിയും ഒരാൾക്ക് ഈ വ്യക്തിയെ തീർത്തും ദുഷ്ടനായ വ്യക്തിയായി കാണാൻ കഴിയും മറ്റൊരാൾക്ക് ഇത് ഒരു മാലാഖയായി കാണാൻ കഴിയും പൂർണ്ണമായും കാരുണ്യവാനും ദിവ്യനുമായ ഒരു വ്യക്തി രണ്ടും സാധ്യമാണ് അത് ഒരേ വ്യക്തിയാണ് കൂടുതൽ പെർസെപ്ച്വൽ വ്യത്യാസങ്ങളും ഒരേ ഗ്ലാസിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്ന രീതിയും നോക്കുക അതിനാൽ ഞാൻ ഇതിൽ ചില ആളുകൾ നടത്തിയ ചില നിരീക്ഷണങ്ങൾ നോക്കുകയായിരുന്നു സാങ്കേതികമായി അവർ പറയുന്നു നിങ്ങൾ ഒരുതരം ശാസ്ത്രീയ സാങ്കേതിക വിശദീകരണം നൽകിയാൽ ഗ്ലാസ് പൂർണ്ണമായും നിറഞ്ഞതായി അവർ പറയുന്നു വാസ്തവത്തിൽ അമ്പത് ശതമാനം അത് വെള്ളവും 50 ശതമാനം അത് വായുവുമാണ് എന്നാൽ ഈ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച മറ്റു ചിലരുണ്ട് അതിനാൽ ഈ സാം ലെഫ്കോവിറ്റ്സ് ഉണ്ട് എന്റെ കപ്പ് പകുതി നിറഞ്ഞതാണോ അതോ പകുതി ശൂന്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് ഒരു കപ്പ് ലഭിച്ചതിൽ ഞാൻ നന്ദിയുള്ളവനാണ് എന്നതാണ് എന്റെ ഏക പ്രതികരണം അലക്സാണ്ടർ ജോഡോറോവ്സ്കിഃ ഒരു ദിവസം ഒരാൾ എനിക്ക് പകുതി നിറഞ്ഞ ഒരു ഗ്ലാസ് വെള്ളം കാണിച്ചു തന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞുഃ അത് പകുതി നിറഞ്ഞതാണോ അതോ പകുതി ശൂന്യമാണോ അങ്ങനെ ഞാൻ വെള്ളം കുടിച്ചു ഇനിയൊരു പ്രശ്നവുമില്ല പിന്നെ ഈ മറ്റൊരാൾ പറയുന്നു നിങ്ങളുടെ ഗ്ലാസ് പകുതി നിറഞ്ഞതാണ് പകുതി ശൂന്യമല്ലെന്ന് ഓർക്കുക പരമാവധി ജീവിതം നയിക്കുക നിങ്ങളുടെ ദിവസം എത്ര മോശമായാലും മറ്റൊരാളുടെ ദിവസം മോശമാണെന്ന് ഓർക്കുക പിന്നെ ഓസ്കാർ വൈൽഡിൻറെ പ്രശസ്തമായ ഉദ്ധരണി അദ്ദേഹം പറയുന്നു ഒരു ശുഭാപ്തിവിശ്വാസി നിങ്ങളോട് പറയും ഗ്ലാസ് പകുതി നിറഞ്ഞിരിക്കുകയാണെന്നും അശുഭാപ്തിവിശ്വാസികൾ പകുതി ശൂന്യമാണെന്നും കൂടാതെ ഗ്ലാസിന് ആവശ്യമുള്ളതിൻ്റെ ഇരട്ടി വലുപ്പമുണ്ടെന്ന് എഞ്ചിനീയർ നിങ്ങളോട് പറയും മൊത്തത്തിൽ ഗ്ലാസ് പകുതി ശൂന്യമാണോ അതോ പകുതി നിറഞ്ഞതാണോ എന്നത് പ്രശ്നമല്ല നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ഉണ്ടെന്നതിൽ നന്ദിയുള്ളവരായിരിക്കുക അതിൽ എന്തോ ഉണ്ടെന്നതിൽ നന്ദിയുള്ളവരായിരിക്കുക ഗ്ലാസ് നിറഞ്ഞതോ ശൂന്യമോ ആണെങ്കിലും ഈ കാര്യത്തിൽ നിന്ന് എടുക്കുന്ന ഒരുതരം ശുഭാപ്തിവിശ്വാസമാണ് അത് അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടെന്ന കാഴ്ചപ്പാട് എടുക്കുക ഇപ്പോൾ മറ്റ് ഒപ്റ്റിക്കൽ മിഥ്യാധാരണകൾ യഥാർത്ഥത്തിൽ നമ്മുടെ പെർസെപ്ഷനൽ വ്യത്യാസങ്ങൾ നിർണ്ണയിക്കുന്നു ഇത് നോക്കൂ ഇത് തീർച്ചയായും എല്ലായ്പ്പോഴും ഏറ്റവും അറിയപ്പെടുന്ന ഒപ്റ്റിക്കൽ മിഥ്യാധാരണകളിൽ ഒന്നാണ് ഒറ്റനോട്ടത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത് നിങ്ങൾ ഒരു വൃദ്ധയെയോ ഒരു യുവാവിനെയോ കാണുന്നുണ്ടോ തീർച്ചയായും നിങ്ങൾ ഇതിനെ ഒരു യുവതിയുടെ മുടിയായി കാണുകയാണെങ്കിൽ പിന്നെ മൂക്ക് ശരി പിന്നെ നിങ്ങൾക്ക് ചെറുപ്പക്കാരിയെ കാണാൻ കഴിയും പക്ഷേ നിങ്ങൾ ഇതിനെ വൃദ്ധയായ സ്ത്രീയുടെ കണ്ണായി നോക്കുകയാണെങ്കിൽ അത് അവളുടെ തലയിൽ ഒരു കവർ ധരിച്ച് തുടർന്ന് ഇത് അവളുടെ മൂക്കാണ് തുടർന്ന് നിങ്ങൾക്ക് താടി കാണാൻ കഴിയും ഇവിടെ അതിനാൽ നിങ്ങൾ മറുവശം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വൃദ്ധയെയും കാണാൻ കഴിയും എന്നാൽ വീണ്ടും സൈക്കോളജിസ്റ്റ് പറയും നിങ്ങൾ വൃദ്ധയെ വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വളരെ ചെറുപ്പമല്ലെന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ വളരെ തിളക്കമാർന്ന വശമല്ലെന്നും നോക്കുന്നു നിങ്ങൾ ചെറുപ്പക്കാരനെ നോക്കുകയാണെങ്കിൽ അവർ വീണ്ടും പറയും നിങ്ങൾ ജീവിതത്തിന്റെ ഉജ്ജ്വലമായ വശങ്ങളിലേക്കാണ് കൂടുതൽ നോക്കുന്നതെന്ന് ഇപ്പോൾ ഇത് ഒരു സമ്പൂർണ്ണ ഫാമിലി മൈൻഡ് ടീസർ പോലെയാണ് അച്ഛനും അമ്മയും മകളും അതിനാൽ മൂന്നെണ്ണം ഉണ്ട് മുമ്പത്തേത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പിതാവിനെയും കാണാം അതിനാൽ ഈ മൂക്ക് ഈ വശത്ത് നിന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും തുടർന്ന് ഈ വ്യക്തി ഇവിടെ മറഞ്ഞിരിക്കുന്നു മുമ്പത്തെ ചിത്രത്തിലെന്നപോലെ നിങ്ങൾ യുവാവിനെയും വൃദ്ധയെയും കാണുന്നു അടുത്തത് നോക്കൂ ഇതൊരു വൃദ്ധ ദമ്പതികളാണ് മുഖങ്ങളുടെ പ്രൊഫൈലുകൾ കാണുക തുടർന്ന് ദമ്പതികൾ ചെലവഴിച്ച സമയം ഓർക്കുന്നു അവർ ചെറുപ്പവും ജീവൻ നിറഞ്ഞവരുമായിരുന്നു ഇരിക്കുന്ന കഥാപാത്രങ്ങൾ കാണുക അതിനാൽ ഇവിടെ ഒരു കഥാപാത്രമുണ്ട് ഇവിടെ മറ്റൊരു കഥാപാത്രമുണ്ട് തുടർന്ന് ഒരു പാത്രമുണ്ട് ചിലപ്പോൾ ചില ആളുകൾ ഈ പാത്രത്തിൻറെ ഇടവേളകൾ നഷ്ടപ്പെടുത്തുന്നു തുടർന്ന് ഇവിടെ മറ്റൊരു സ്ത്രീയുണ്ട് അതിനാൽ നിങ്ങൾ ആദ്യമായി കാണുമ്പോൾ പോലെ നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ നഷ്ടമായേക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കാണുകയും മറ്റ് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തേക്കാം നിങ്ങളുടെ ധാരണ കാരണം സംഭവിക്കുന്ന തെറ്റായി ഞങ്ങൾ പറയുന്നത് ഇതാണ് നിങ്ങൾ ഒരു മുയലിനെയോ താറാവിനെയോ കാണുന്നുണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചതിനാൽ നിങ്ങൾ മുയലിനേയും താറാവിനെയും കണ്ടേക്കാം അതിനാൽ നിങ്ങൾ മുയൽ കാണുകയാണെങ്കിൽ അത് ഈ കാഴ്ച പോലെയാണ് അവിടെ ഒരു വാൽ ഉണ്ട് അത് കണ്ണുകളാണ് നിങ്ങൾ താറാവിനെ കാണുകയാണെങ്കിൽ അതിനാൽ മുയലിന് ഇത് ചെവികളായി മാറുന്നു നിങ്ങൾ താറാവിനെ കാണുകയാണെങ്കിൽ ഇത് അതിന്റെ കൊക്കായി മാറുകയും ഇത് അതിന്റെ വാലായി മാറുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾ നിങ്ങളിൽ ചിലരെപ്പോലെ ആദ്യം മുയൽ കാണുന്നുണ്ടാകാം നിങ്ങളിൽ ചിലർ ആദ്യം താറാവിനെ കാണുന്നുണ്ടാകാം വീഡിയോയിൽ ഇത് വളരെ വ്യക്തമല്ലായിരിക്കാം പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദീർഘനേരം അതിനെ തുറിച്ചുനോക്കുമ്പോൾ വൃത്തങ്ങൾ ചലിക്കുന്നുവെന്ന തോന്നൽ നിങ്ങൾക്ക് ലഭിക്കും ഇത് ഒരു മിഥ്യാധാരണ മാത്രമാണെന്ന് നമുക്ക് നന്നായി അറിയാം കാരണം അവ വെറും സ്റ്റേഷനറി മാത്രമാണ് അവ യഥാർത്ഥത്തിൽ നീങ്ങുന്നില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സത്യമല്ലെന്ന് വ്യക്തമായി കാണുമ്പോൾ അപ്പോൾ നിങ്ങൾ ആളുകളുമായി ഇടപഴകുമ്പോൾ ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലായ്പ്പോഴും ശരിയല്ലാത്തതോ ശരിയായ പ്രൊഫൈലിൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യം കാണിക്കാത്തതോ ആയ എന്തെങ്കിലും നിങ്ങൾ കാണുന്നു നാല് അന്ധരായ പുരുഷന്മാർ പോയി ഒരു ആനയെ നോക്കി എന്ന് പറയുന്നു വാസ്തവത്തിൽ അവിടെ നോക്കി എന്നത് ആനയെ സ്പർശിച്ചു എന്നാണ് ഒരാൾ ആനയുടെ കാലിൽ തൊട്ടു അത് ഒരു തൂൺ പോലെയാണെന്ന് പറഞ്ഞു മറ്റേയാൾ ശരീരത്തിൽ കൈവെച്ചു എന്നിട്ട് അത് ഒരു മതിൽ പോലെയാണെന്ന് പറഞ്ഞു തുടങ്ങിയവ അതിനാൽ മൂന്നാമത്തെ വ്യക്തി മുൻഭാഗത്ത് തൊട്ടു തുടർന്ന് അവൻ പറഞ്ഞു ഓ ഇത് ഒരു മരം പോലെയാണ് ഇപ്പോൾ ഓരോരുത്തരും അതിൻറെ ഒരു ഭാഗം സ്പർശിക്കുമ്പോൾ ആനയുടെ മുഴുവൻ ഭാഗവും മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പിന്നെ അവരിൽ ആർക്കും പൂർണ്ണമായ ചിത്രം ലഭിച്ചില്ല ഇപ്പോൾ ഇത് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു സാഹചര്യം വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഒരു കേസ് വിശകലനം ചെയ്യുകയും തുടർന്ന് ആളുകളെ നോക്കുകയും ആളുകളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു കിംവദന്തി പോലും കേൾക്കുന്നു അത് പരിശോധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജനങ്ങളോട് ചോദിക്കാൻ പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സ്വന്തം മുൻവിധികൾ രൂപപ്പെടുത്തുകയും ആ ബന്ധം വഷളാകുകയും ചെയ്യുക ഇപ്പോൾ ഈ പശ്ചാത്തലത്തിൽ മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് ആളുകൾ പലപ്പോഴും പറയുന്നു ഞാൻ എത്ര നല്ലവനാണെന്ന് ആളുകൾ കാണുന്നില്ല അവർ എല്ലായ്പ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു ഇപ്പോൾ ഇവ സാധാരണ കാര്യങ്ങളാണ് എന്നാൽ സ്റ്റീവൻ കോവിയുടെ മറ്റൊരു കഥയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മറ്റൊരു കഥയാണ് അദ്ദേഹം വിവരിക്കുന്ന സംഭവം ഈ ന്യൂയോർക്ക് സബ്വേ കാറിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം വിവരിക്കുന്ന സംഭവമാണിത് എന്തുകൊണ്ടാണ് താൻ തി സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകം എഴുതാൻ തുടങ്ങിയതെന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മോട് പറയുന്നു എന്താണ് സംഭവിച്ചത് ഈ പുസ്തകം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താണ് ഇപ്പോൾ ഇത് അദ്ദേഹം ആമുഖത്തിൽ പറയുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ ന്യൂയോർക്ക് സബ്വേ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സംഭവിച്ച തന്റെ ചിന്തയിലെ മാതൃകാപരമായ മാറ്റത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു എന്താണ് ഈ മാതൃകാപരമായ മാറ്റം അത് നിങ്ങളുടെ ചിന്തയിലെ പൂർണ്ണമായ മാറ്റമാണ് പൂർണ്ണമായും ഞെട്ടിക്കുന്ന കാഴ്ചപ്പാടിലെ മാറ്റമാണ് നിങ്ങളുടെ പാറ്റേൺ മനസ്സ് ലോകവീക്ഷണം ആളുകളെ നോക്കുന്ന രീതി എന്നിവയിൽ പൂർണ്ണമായ മാറ്റം അപ്പോൾ ഒരു സമ്പൂർണ്ണ മാറ്റം സംഭവിച്ചു അത് അദ്ദേഹത്തിന് എങ്ങനെ സംഭവിച്ചു ഞാൻ കഥ പറയാം അതിനാൽ അവൻ ഈ ന്യൂയോർക്ക് സബ്വേ കാറിലായിരുന്നു അത് വളരെ ശാന്തവും വളരെ സമാധാനപരവുമായിരുന്നു ആളുകൾ എല്ലാവരും സന്തുഷ്ടരായിരുന്നു പിന്നെ അവർ അവരുടെ തിരക്കേറിയ ദിവസവും തിരക്കേറിയ സമയക്രമവും കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ചിലർ വാർത്താ പത്രം വായിക്കുകയായിരുന്നു ചിലർ നിശബ്ദമായി എന്തോ കേൾക്കുകയായിരുന്നു അവരിൽ ഭൂരിഭാഗവും വളരെ മയക്കാവസ്ഥയിലായിരുന്നു പിന്നെ അവരിൽ ചിലർ യഥാർത്ഥത്തിൽ ഉറങ്ങുകയും തല കുലുക്കുകയും ചെയ്തു ഈ സമയത്ത് ഒരു മധ്യവയസ്കൻ കാറിൽ കയറി യഥാർത്ഥത്തിൽ മൂന്ന് കുട്ടികളുമായാണ് അദ്ദേഹം വന്നത് ഒരു ചെറിയ ആൺകുട്ടിയും പിന്നീട് രണ്ട് സഹോദരിമാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പോൾ അവൻ വന്നു പിന്നെ അവൻ കോവിയുടെ അരികിൽ ഇരുന്നു പിന്നെ അവൻ ഇരുന്നു പിന്നെ അവൻ തൻ്റെ ലോകത്തിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു പിന്നെ അവൻ കുട്ടികളെ കളിക്കാൻ അനുവദിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് സാഹചര്യം സങ്കൽപ്പിക്കാൻ കഴിയും അത് വളരെ ശാന്തമായിരുന്നു വളരെ നിശബ്ദമായിരുന്നു പക്ഷേ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ തുടങ്ങി അവർ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അവർ കളിക്കാൻ തുടങ്ങി അവർ ഒളിച്ചു കളിക്കാൻ തുടങ്ങി അവർ പോയി എവിടെയോ അടിച്ചു ആരുടെയോ വാർത്താ പത്രം അവർ വലിക്കാൻ തുടങ്ങി അവർ വളരെയധികം ശബ്ദമുണ്ടാക്കി തുടർന്ന് എല്ലാവർക്കും ദേഷ്യം തോന്നി ഇതൊരു കാറും രാത്രി സമയവുമാണ് ഈ കുട്ടികൾ വന്ന് അവരുടെ ഉറക്കം നശിപ്പിക്കുമെന്നും അവരുടെ സമാധാനം നശിപ്പിക്കുമെന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ അവർ വളരെ ദേഷ്യപ്പെട്ടു എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ ശാന്തനായിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല എഴുത്തുകാരനായ സ്റ്റീവൻ കോവിയും ദേഷ്യപ്പെട്ടു താൻ കുട്ടികളെ വഴക്ക് പറയുമെന്ന് എന്ന് അദ്ദേഹം കരുതി എന്നാൽ ഇരിക്കുന്ന വ്യക്തിയുടെ മക്കളാണ് ആദ്യം ഈ പിതാവിനോട് കുട്ടികളോട് നിലവിളിക്കാൻ ആവശ്യപ്പെടണമെന്ന് അദ്ദേഹം കരുതി ഇപ്പോൾ അദ്ദേഹം കുട്ടികളോട് ഒന്നും പറയാത്തതിൽ പിതാവിനോട് ചോദിക്കണോ അല്ലെങ്കിൽ ദേഷ്യപ്പെടണോ എന്ന് ആലോചിച്ചു ഈ ആളുകൾ വളരെ പ്രകോപിതരാണെന്ന് മനസ്സിലാക്കാത്തതിന് അവൻ ഒരു നിമിഷം അറിയാൻ ആഗ്രഹിച്ചു എന്തുകൊണ്ടാണ് അയാൾ മൌനം പാലിക്കുന്നത് കാരണം ഒരു നിമിഷത്തേക്ക് അത് അസാധാരണമാണെന്ന് അയാൾ കരുതി ഈ ആൾ വെറുതെ മിണ്ടാതെ ഇരിക്കുകയാണ് പിന്നെ ഇതെല്ലാം അവന്റെ കുട്ടികളെല്ലാം വളരെയധികം ശബ്ദമുണ്ടാക്കുകയും വളരെയധികം പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അവൻ എവിടെയോ നഷ്ടപ്പെട്ടതായി കാണപ്പെടുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് ആശങ്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് കോവെ അവനെ സൌമ്യമായി ശല്യപ്പെടുത്തുകയും കുട്ടികളോട് ശബ്ദമുണ്ടാക്കുന്നത് തടയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു അയാൾ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത് അതെ ഞാൻ ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് താൻ നിശബ്ദത പാലിക്കുന്നതെന്നും എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചതിനാൽ നിങ്ങൾ ചോദിച്ചതിനാൽ നിങ്ങളോട് പറയാൻ ഞാൻ മടിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു യഥാർത്ഥത്തിൽ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയാണ് അവിടെ അവരുടെ അമ്മയെ ഒരു അപകടത്തെ തുടർന്ന് പ്രവേശിപ്പിച്ചതായി എനിക്ക് റിപ്പോർട്ട് ലഭിച്ചു ഞങ്ങൽ അവിഡ് എത്തിയപ്പോഴേക്കും അവ മരിച്ചുപോയി അതിനാൽ ഞങ്ങൾ ശവസംസ്കാര ഗ്രൌണ്ടിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾ അവളെ സംസ്കരിച്ചു പിന്നെ കുട്ടികൾ അവളോട് വളരെ സ്നേഹമുള്ളവരായിരുന്നു ഞാൻ അവളെ വളരെയധികം സ്നേഹിച്ചു പിന്നെ അവൾ ഞങ്ങളെ എല്ലാവരെയും സ്നേഹിച്ചു അവൾ എന്റെ കുട്ടികളെ പൂർണ്ണമായും പരിപാലിച്ചു അവൾ അവർക്ക് എത്രമാത്രം സ്നേഹവും കരുതലും നൽകുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ എന്റെ ബിസിനസ്സിൽ വളരെ തിരക്കിലായിരുന്നു പക്ഷേ ഇന്ന് അവർ എല്ലായ്പ്പോഴും ഈ കാറിൽ പോകാൻ ആഗ്രഹിച്ചു ഞാൻ അവരെ ഒരിക്കലും അനുവദിച്ചില്ല ഒരു മാറ്റത്തിനായി ഞാൻ അവരെ കാറിനുള്ളിൽ കൊണ്ടുവന്നു ഞാൻ അവരെ പരിഭ്രാന്തരാക്കാനും അവർ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാനും അനുവദിച്ചു ഞാൻ പൂർണ്ണമായും നഷ്ടപ്പെട്ടു കാരണം വീട്ടിൽ എത്തിയാലുടൻ ഈ ശൂന്യത എങ്ങനെ നികത്തുമെന്ന് എനിക്കറിയില്ല ഈ കുട്ടികൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ കുട്ടികളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും ഇപ്പോൾ ഇതായിരുന്നു എന്റെ മനസ്സിൽ ഉള്ള ചിന്ത അത് എന്നെ വിഷമിപ്പിക്കുന്നു ക്ഷമിക്കണം അവർ നിങ്ങളെ ശല്യപ്പെടുത്തുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു അവൻ കുട്ടികളെ തടയാൻ പോകുമ്പോൾ സ്റ്റീവൻ കോവി അവനോട് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോഴാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് ഒരു മിനിറ്റ് മുമ്പ് അവൻ ഈ മനുഷ്യനോട് വളരെ ദേഷ്യപ്പെട്ടു കുട്ടികളോട് വളരെ ദേശി തോന്നി ആ മനുഷ്യൻ ഈ സംഭവം വിവരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വാഹനാപകടത്തിൽ മരിച്ചു തുടർന്ന് അവർ പോയി അവളെ അടക്കം ചെയ്തു തുടർന്ന് അവർ തിരിച്ചുവരുന്നു അവൾ വളരെ ചെറുപ്പമായിരുന്നു വളരെ കരുതലുള്ളവളായിരുന്നു പിന്നെ അവർ അവളെ വളരെയധികം മിസ് ചെയ്യുന്നു കോപത്തിൽ നിന്ന് അത്തരം അനുകമ്പയിലേക്കും വികാരത്തിലേക്കും മാറാൻ സ്റ്റീവൻ കോവിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ് അപ്പോഴാണ് അത് സഹാനുഭൂതിയാണെന്നും മറ്റേ വ്യക്തിയോടുള്ള തൻ്റെ വികാരമാണെന്നും അദ്ദേഹം മനസ്സിലാക്കിയത് അത് അവനോട് ചോദിക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി തുടർന്ന് ഈ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കി അതിനാൽ അദ്ദേഹം അടുത്ത നിയമം ഉണ്ടാക്കുന്നു അദ്ദേഹം പറയുന്ന അഞ്ചാമത്തെ ശീലമാണിത്ഃ മുൻവിധികളാൽ നയിക്കപ്പെടരുത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ മനസ്സിലാക്കാൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പറയുന്നതിനുപകരം ആളുകൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല ഈ ആളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു പിതാവാണെങ്കിൽ നിങ്ങളുടെ മകനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഒരു മകനാണെങ്കിൽ നിങ്ങളുടെ പിതാവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കൾക്കിടയിൽ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം മനസ്സിലാക്കുക അയൽ സമൂഹം വ്യത്യസ്ത മത സമൂഹം പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക അനുകമ്പ കാണിക്കാൻ ശ്രമിക്കുക അനുകമ്പ കാണിക്കാൻ ശ്രമിക്കുക സഹാനുഭൂതി യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്നു വ്യക്തിയുടെ മറ്റ് ഷൂകളിൽ സ്വയം വയ്ക്കുക ഭർത്താവ് ഓഫീസിൽ നിന്ന് വൈകിയെത്തുമ്പോൾ ഭാര്യ വളരെ ദേഷ്യത്തോടെ തുറക്കുന്നു താൻ അവളെ ഷോപ്പിംഗിനോ സിനിമയ്ക്കോ കൊണ്ടുപോകുമെന്ന് ഭർത്താവ് യഥാർത്ഥത്തിൽ വാഗ്ദാനം ചെയ്തു തുടർന്ന് താൻ വളരെ വൈകിയാണ് വന്നത് ഇപ്പോൾ അവൻ ഒരു അപകടത്തിലാണെന്ന് തിരിച്ചറിയാതെ അവൾ അവനോട് തർക്കിക്കാൻ തുടങ്ങുന്നു തുടർന്ന് പ്രഥമശുശ്രൂഷയ്ക്കായി ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടിവന്നു പിന്നെ അവളുടെ ദേഷ്യത്തിൽ അവൻറെ കൈയിൽ എന്തെങ്കിലും ബാൻഡേജ് ഉണ്ടെന്നും അതെല്ലാം ഉണ്ടെന്നും അവൾ കണ്ടില്ല പിന്നീട് അവളുടെ കോപം കുറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾ കണ്ടു ഇപ്പോൾ എല്ലായിടത്തും ഈ സാഹചര്യം സാധ്യമാണ് നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് ആ വ്യക്തിയെ ആ രീതിയിൽ പെരുമാറാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് മറ്റൊരാളിൽ നിന്ന് കണ്ടെത്താൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ പകരം അസാധാരണമായ രീതിയിൽ എല്ലായ്പ്പോഴും ഒരു ഉത്തരമുണ്ട് നിങ്ങൾ ആ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ വളരെ അനിയന്ത്രിതമായ വൈകാരിക രീതിയിൽ പെരുമാറേണ്ടതെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യവുമില്ല ഇപ്പോൾ അതാണ് അദ്ദേഹത്തിൻറെ സുവർണ്ണ നിയമം ആദ്യം മനസ്സിലാക്കാനും പിന്നീട് മനസ്സിലാക്കാനും ശ്രമിക്കുക എന്ന് അദ്ദേഹം പറയുന്നു അതിനാൽ ആളുകളോട് ഇടപെടുന്ന നിങ്ങളുടെ വൈകാരിക രീതിയിൽ ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി നൽകുമെന്ന് ഓർമ്മിക്കുക എന്നാൽ ഈ ശീലം പരിശീലിക്കാൻ ശ്രമിക്കുക ഈ ശീലം വളർത്തിയെടുക്കുക അടുത്ത തവണ ആരെങ്കിലും വളരെ അസാധാരണമായ രീതിയിലാണ് പെരുമാറുന്നതെന്ന് നിങ്ങൾ അറിയുമ്പോൾ വികാരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക പോയി നിലവിളിക്കുന്നതിനുപകരം അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനുപകരം ആ വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് ആദ്യം അന്വേഷിക്കാൻ ശ്രമിക്കുക ആ വ്യക്തി അത് പറയാൻ തയ്യാറാകാത്തപ്പോൾ നിങ്ങൾ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക നിങ്ങൾക്ക് സഹാനുഭൂതിയുണ്ടെന്ന് കാണിക്കുക നിങ്ങൾക്ക് സഹാനുഭൂതിയുണ്ടെന്ന് കാണിക്കുക നിങ്ങൾ അനുകമ്പയുള്ളവരാണെന്ന് കാണിക്കുക തുടർന്ന് ആ വ്യക്തിയെ നിങ്ങളോട് സുഖകരമാക്കുക ആ വ്യക്തിയെ അവന്റെ അല്ലെങ്കിൽ അവളുടെ സന്തോഷം പങ്കിടാനും വികാരങ്ങളെ വ്രണപ്പെടുത്താനും പ്രേരിപ്പിക്കുക ഈ വ്യക്തിയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുക ആ വ്യക്തിക്ക് അത് നിങ്ങളുമായി പങ്കിടാൻ കഴിയുമെങ്കിൽ മറ്റൊരാളെ അധിക്ഷേപിക്കാനും ശാസിക്കാനും വൈകാരികമായി അധിക്ഷേപിക്കാനും നിങ്ങൾക്ക് ഒരു കാരണവുമില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ ഓർക്കുകഃ ആദ്യം മനസ്സിലാക്കാനും പിന്നീട് മനസ്സിലാക്കാനും ശ്രമിക്കുക അതിനാൽ ഈ ചിന്തയോടെ ഒരു ഓർമ്മപ്പെടുത്തലോടെ ഞാൻ ഇത് അവസാനിപ്പിക്കുന്നുഃ നിങ്ങൾ സ്റ്റീവ് ജോബിന്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി അത് കാണുക തുടർന്ന് സ്റ്റീവൻ കോവിയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകം വാങ്ങുന്നത് മൂല്യവത്താണ് നിങ്ങളെ പരിപോഷിപ്പിക്കുന്നതിലും നിങ്ങളെ വികസിപ്പിക്കുന്നതിലും അടിസ്ഥാനമായതിനാൽ ഞാൻ രണ്ട് ശീലങ്ങൾ ഉൾപ്പെടുത്തി വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ സോഫ്റ്റ് കഴിവുകൾ വികസിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു ആദ്യത്തേത് മുമ്പത്തേതിൽ ചർച്ച ചെയ്യപ്പെട്ടു നിങ്ങൾ അവസാനം മനസ്സിൽ വെച്ചുകൊണ്ട് ആരംഭിക്കുക യഥാർത്ഥത്തിൽ അതിന്റെ ക്രമത്തിൽ ഞാൻ ഇവിടെ ചർച്ച ചെയ്ത രണ്ടാമത്തേത് അഞ്ചാമത്തേതാണ് നിങ്ങൾക്ക് സഹാനുഭൂതി വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്ന ശീലം നിങ്ങൾ പ്രതികരിക്കുന്നതിന് മുമ്പ് മറ്റേ വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നണം അതിനാൽ ഈ കുറിപ്പിനൊപ്പം ഈ വീഡിയോ കണ്ടതിന് നന്ദി അതിനാൽ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും